അതിനാൽ ടൈമിംഗ് ക്ലോഷറിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഞങ്ങൾ തുടരുന്നു ഈ പ്രഭാഷണത്തിൽ ഈ സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഞങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ ഞങ്ങൾ പരാമർശിച്ചത് ഇപ്പോൾ ഓർക്കുക ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിലെ ഏറ്റവും മോശം അവസ്ഥ കാലതാമസം കണക്കാക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപകരണമാണ് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് അതിനാൽ ഒരു സർക്യൂട്ട് നെറ്റ് ലിസ്റ്റിലെ ഒരു ഡിസൈനിലെ സമയ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വിശകലനം വളരെ ഉപകാരപ്രദമാണ് അതിനാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് ആ ലംഘനങ്ങൾ തിരുത്താൻ ശ്രമിക്കാം അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണവുമായി മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്നത് മിക്കവാറും എല്ലാ ഡിജിറ്റൽ ഐസികളുംdigital ICsസിൻക്രൊണസ് ഫിനിറ്റ് സെറ്റ് മെഷീനുകളാണെന്നാണ് നമുക്ക് ഇത് വിശദീകരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു പരിമിത സെറ്റ് മെഷീൻ എങ്ങനെ കാണപ്പെടും നമുക്ക് അത് ആദ്യം നോക്കാം അതിനാൽ ഏതെങ്കിലും പരിമിത സെറ്റ് മെഷീൻ അതായത് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഇനിപ്പറയുന്ന രീതിയിൽ മാതൃകയാക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ടം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട് അതിനാൽ ഞാൻ അവരെ പ്രത്യേകം കാണിക്കുന്നു അതിനാൽ ചില പ്രാഥമിക ഇൻപുട്ടുകൾ വരുന്നു ഇവയാണ് പ്രാഥമിക ഇൻപുട്ടുകൾ ചില പ്രാഥമിക ഔട്ട്പുട്ടുകൾ പി ചില ഔട്ട്പുട്ടുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു അതിനാൽ ഇതിനെ ഞങ്ങൾ അടുത്ത സ്റ്റേറ്റ് എന്നും ഇതിനെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് പിഎസ്എന്നും വിളിക്കുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഫെഡ് നൽകുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അതിനാൽ സാധാരണയായി ഈ മോഡലിൽ ഊഹിക്കപ്പെടുന്നത് ക്ലോക്ക് ഇങ്ങനെ പോകുന്ന ഒരു ആനുകാലിക സിഗ്നലാണ് എന്നാണ് ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജിലാണ്ഇത് ട്രിഗർ ചെയ്തതെന്ന് പറയട്ടെ അതിനാൽ ക്ലോക്കിന്റെ എല്ലാ പോസിറ്റീവ് എഡ്ജിലും ഇവിടെഈ അവസ്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിനാൽ സ്റ്റേറ്റ് മാറ്റങ്ങളാൽ ഞങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഈ ക്ലോക്ക് നിലവിൽ വന്നതിനുശേഷം നിങ്ങൾ ഒരു പ്രത്യേക മാതൃക കാണും ഈ സമയത്തിനുശേഷം കോമ്പിനേഷണൽ സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ടുകൾ സ്ഥിരമാണ് പിഐ വരുന്നു ഈ പിഎസും സ്ഥിരമാണ് അതിനാൽ കോമ്പിനേഷണൽ സർക്യൂട്ടിന് കുറച്ച് കാലതാമസം ഉണ്ടാകും ആ കാലതാമസത്തിന് ശേഷം അത് കമ്പ്യൂട്ടിംഗ് PO NS എന്നിവ ആയിരിക്കും അടുത്ത എഡ്ജ് വരുമ്പോൾ ഈ NS ഇതിനകം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലാണ് അതിനാൽ അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഈ NS സംഭരിക്കപ്പെടുകയും അത് ഇപ്പോൾ അടുത്ത സൈക്കിൾ വലതുവശത്തെ PS ആയി മാറുകയും ചെയ്യും അതിനാൽ ഈ രീതിയിൽ ഇത് തുടരുന്നു വീണ്ടും ഈ ക്ലോക്ക് പിരീഡ് തീരുമാനിക്കുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് കാലതാമസം മാത്രമല്ല ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ചില സ്വഭാവസവിശേഷതകളും ഈ സജ്ജീകരണവും ഹോൾഡ് സമയവും സജ്ജീകരിക്കുകയും ശരിയായി പിടിക്കുകയും ചെയ്യുക ഇപ്പോൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ഈ മാതൃക നിങ്ങൾ കൃത്യസമയത്ത് അഴിക്കുന്നതുപോലെ പ്രകടിപ്പിക്കാനും കഴിയും ഞാൻ ക്രമത്തിൽ വരുന്ന ഈ ഇൻപുട്ടുകൾ എന്റെ പക്കലുണ്ടെന്ന് പറയട്ടെ ആദ്യം I1 പിന്നെ I2 I3 പിന്നെ I4 ഇതുപോലെ പറയട്ടെ ഇപ്പോൾ ഈ മാതൃകയിൽ അവർ ഓരോ ആവർത്തനത്തിലും തുടർച്ചയായി വരുന്നു ഞാൻ ഒരു ഇൻപുട്ട് പ്രയോഗിക്കുന്നു അടുത്ത സ്റ്റേറ്റ് വരുന്നു എന്നത് ഇപ്പോഴത്തെ അവസ്ഥയായി മാറുകയാണ് അപ്പോൾ ഞാൻ I2 I3 I4 തുടങ്ങിയവ പ്രയോഗിക്കുന്നു ഇപ്പോൾ ചിലപ്പോൾ ഒരു വിശകലനം മോഡലിംഗ് ചെയ്യുന്നതിനായി യഥാർത്ഥ സർക്യൂട്ട് സാക്ഷാത്കാരത്തിനായി നമുക്ക് അൺറോളിംഗ് എന്ന ഒരു പ്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ ഞങ്ങൾ ഈ ആവർത്തന ഘടന അൺറോൾ ചെയ്യുന്നു ഉദാഹരണത്തിന് ഞാൻ ഇത് 3 തവണ അൺറോൾ ചെയ്യുന്നു അതിനാൽ ഇവിടെ ഞാൻ പറയുന്നത് ഈ I1 I2 I3 ഇവ ഒരേ സമയം പ്രയോഗിച്ചതുപോലെയാണ് 3 3 3 ഞങ്ങൾ വിഭജിക്കുന്നു ഞാൻ കാണിച്ച ഈ ഡയഗ്രാമിൽ അതിനാൽ ഇവിടെ ഞങ്ങൾ യഥാർത്ഥത്തിൽ 3 തവണ സർക്യൂട്ട് അഴിച്ചു അതിനാൽ ഇവിടെ നിങ്ങൾ അതേ സർക്യൂട്ട് കണ്ടാൽ ഞങ്ങൾ അത് 3 തവണ അഴിച്ചു അതിനാൽ ആദ്യ കോപ്പി അതിന്റെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നു അതിന്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ കോപ്പിലേക്ക് വരുന്നു ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നു അതിന്റെ ഔട്ട്പുട് മൂന്നാമത്തെ കോപ്പിലേക്ക് വരുന്നു ഇപ്പോൾ ഞാൻ കാണിക്കാത്തത് ഇവിടെ ഇൻപുട്ട് I1 വരുന്നു ഇൻപുട്ട് I2 വരുന്നു ഇൻപുട്ട് I3 വരുന്നു അതിനാൽ ഇവിടെ ഒരു ക്ലോക്കിൽ ഞങ്ങൾ മുൻ സർക്യൂട്ടിലെ 3 ക്ലോക്കുകളുടെ ചുമതല നിർവഹിക്കുന്നു ഇപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടുകളിലെ കാലതാമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഇത് ക്ലോക്ക് എഡ്ജിലുടനീളം എങ്ങനെ ബാധിക്കാമെന്നും ഞങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അൺറോളിംഗ് ചെയ്യുന്നു അതിനാൽ ആ വിശകലനത്തിനായി ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു തുടർച്ചയായ സർക്യൂട്ട് അഴിക്കേണ്ടിവരാം അതിനാൽ ഒരു നിശ്ചിത രൂപകൽപ്പനയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന പരമാവധി ക്ലോക്ക് ഫ്രീക്വൻസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്ന 3 കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇത് സജ്ജീകരണത്തെയും ഹോൾഡ് സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നു സെറ്റപ്പ് ഹോൾഡ് സമയം എന്നിവ നമുക്ക് നിയന്ത്രിക്കാനാകില്ലെന്ന് കരുതുന്ന ഒന്നാണ് കാരണം ചില സ്റ്റോറേജ് സെല്ലുകൾചില ടെക്നോളജി ലൈബ്രറിയിൽനിന്ന് ഞങ്ങൾ ഇതിനകം എടുത്തിട്ടുണ്ട് രൂപകൽപ്പന ചെയ്തത് കൂടാതെ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തത് എന്നാൽ സജ്ജീകരണവും ഹോൾഡ് സമയങ്ങളും ഇതിനകം വ്യക്തമാക്കിയതാണ് അതിനാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ എനിക്ക് ഈ സജ്ജീകരണ സമയം കൂടുതൽ ദൈർഘ്യമേറിയതോ ചെറുതാക്കുന്നതോ അല്ലെങ്കിൽ ഹോൾഡ് ടൈമുകൾ ദൈർഘ്യമേറിയതോ ചെറുതോ ആക്കാൻ കഴിയില്ല അവ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നമുക്ക് ചുറ്റും കളിക്കാൻ കഴിയുന്ന പാരാമീറ്ററുകൾ ഗേറ്റ് കാലതാമസം നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ഒരു ഗേറ്റ് ചെറുതാക്കാം നമുക്ക് ഒരു ഗേറ്റ് വലുതാക്കാം ഗേറ്റ് ട്രാൻസിഷനുകൾമൂലമുള്ള സിഗ്നൽ കാലതാമസവുമായി ഇത് പൊരുത്തപ്പെടുന്നു ഗേറ്റ് ട്രാൻസിഷൻ എന്നാൽ ഒരു ഇൻപുട്ട് 0 മുതൽ 1 അല്ലെങ്കിൽ 1 വരെ 0 ആയി മാറുമ്പോഴെല്ലാം ഒരു ഗേറ്റ് നൽകുന്നു എത്ര സമയത്തിന് ശേഷം ഗേറ്റിന്റെ ഔട്ട്പുട്ട് ട്രാൻസിഷന്റെ കാര്യത്തിൽ ഗേറ്റ് കാലതാമസംസംഭവിക്കുന്നുവെന്ന് കാണിക്കും അതുപോലെ വയർ കാലതാമസം ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്ന വയറുകളിലൂടെയുള്ള സിഗ്നൽ പ്രചരണവുമായി പൊരുത്തപ്പെടുന്നു അതിനാൽ ഞങ്ങൾ നേരത്തെ കണ്ടത് വയർ കാലതാമസം നിയന്ത്രിക്കാൻ കഴിയും ബഫറുകൾ തിരുകി ഒരു വയർ കാലതാമസം ചെറുതാക്കാം ശ്രമിച്ചു ചെറുതാക്കാം എന്നാൽ ചിലപ്പോൾ ഞങ്ങൾ വയർ കൂടുതൽ നീട്ടാൻ ആഗ്രഹിക്കുന്നു കാലതാമസം വർദ്ധിപ്പിക്കും നിങ്ങൾ ഓർക്കുന്നത് പോലെ ഈ ചരിവ് ക്രമീകരിക്കുന്നതിന് ക്ലോക്ക് നെറ്റ് റൂട്ടിംഗ് നമുക്ക് വയറുകളിലൊന്ന് വേഗത കുറയ്ക്കേണ്ടി വന്നേക്കാം അതിനാൽ നമുക്ക് സ്നാക്കിംഗ് ചിലതരം സിഗ് സാഗ് പാത്ത് പോലുള്ള എന്തെങ്കിലും ചെയ്യേണ്ടി വന്നേക്കാം മൊത്തം ദൈർഘ്യം വർദ്ധിക്കുന്നതിനും കാലതാമസം സന്തുലിതമാകുന്നതിനും നമുക്ക് എടുക്കാം മൂന്നാമത്തേത് തീർച്ചയായും ക്ലോക്ക് സ്ക്യൂ പരമാവധി ക്ലോക്ക് ഫ്രീക്വൻസി ക്ലോക്ക് സ്ക്യൂ എന്നിവയും ഇത് ഡിസൈനിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വളരെ നല്ല ക്ലോക്ക് സ്കെവുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരിക്കാം ചില ഡിസൈനുകൾക്ക് ഇത് വളരെ ചെറുതാണ് അത് ഗണ്യമായി ഉയർന്നേക്കാം ഇപ്പോൾ സമയം കണക്കാക്കാൻ ഈ ഗേറ്റ് കാലതാമസവും വയർ കാലതാമസവും കണക്കാക്കാൻ നിങ്ങൾ തൽക്കാലം അവഗണിക്കുന്ന ക്ലോക്ക് സ്കേവ് അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ്എന്നൊരു പ്രക്രിയ ഞങ്ങൾ നടത്തുന്നു അതിനാൽ ഈ വിശകലനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഗേറ്റ് വയർ കാലതാമസം എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്ലോക്ക് സ്കേവ് നിസ്സാരമാണെന്ന് ഞങ്ങൾ കരുതുന്നു ക്ലോക്ക് സ്കൌഞങ്ങൾ പ്രത്യേകം പരിഗണിക്കും അതിനാൽ ക്ലോക്ക് നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്ത് സമന്വയിപ്പിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ക്ലോക്ക് സ്ക്യൂകൾ നോക്കി ആവശ്യാനുസരണം ക്രമീകരിക്കുകയുള്ളൂ എന്നാൽ ഞങ്ങൾ സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനം നടത്തുമ്പോൾ ഗേറ്റ് കാലതാമസവും വയർ കാലതാമസവും മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം എന്താണെന്ന് നോക്കാം ഈ പ്രക്രിയ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിന് മാത്രമായി ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആദ്യ പോയിന്റ് ഒരു തുടർച്ചയായ സർക്യൂട്ടിന് വേണ്ടിയല്ല അതിനാൽ 2 സ്റ്റോറേജ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഘട്ടങ്ങൾക്കിടയിൽ തന്നിരിക്കുന്ന നെറ്റ് ലിസ്റ്റിന്റെ ഒരു ഭാഗം എടുക്കുന്നു ഇത് ഒരു ശുദ്ധമായ കോമ്പിനേഷൻ സർക്യൂട്ട് ആണ് ഇത് ഏറ്റവും മോശമായ കാലതാമസം കണക്കാക്കുന്നു ഏകദേശം അത് അങ്ങനെയാണ് അതിനാൽ ഈ പ്രക്രിയയ്ക്കായി ഞാൻ നൽകുന്ന ദൃഷ്ടാന്തം ഇവിടെ കോമ്പിനേഷണൽ ലോജിക്ഒരു നേരിട്ടുള്ള ചാക്രിക ഗ്രാഫായി പ്രകടിപ്പിക്കും ഡയറക്ട് അസൈക്ലിക് ഗ്രാഫ്എന്നാൽ എല്ലാ അരികുകളിലും ഒരു അമ്പ് ഉള്ള ഗ്രാഫ് അത് സിഗ്നൽ സംക്രമണത്തിന്റെ ദിശ കാണിക്കുന്നു ഫീഡ്ബാക്ക് ഇല്ല ഡയറക്റ്റ് സൈക്കിൾഇല്ല സംവിധാനം ചെയ്ത അസൈക്ലിക് എന്നാൽ ചക്രങ്ങളില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഞങ്ങൾ ഒരു ഉദാഹരണം എടുക്കുന്നു നമുക്ക് ഈ സർക്യൂട്ട് പ്രത്യേകം വരയ്ക്കാം അതിനാൽ ഞങ്ങൾ ഇതുപോലുള്ള ഒരു ഉദാഹരണം എടുത്തു ഇത് ഞങ്ങൾ എടുത്ത ലളിതമായ സംയോജന സർക്യൂട്ട് ആണ് അതിനാൽ ഇൻപുട്ട് നമുക്ക് അതിനെ a b c എന്ന് വിളിക്കാം ഇത് x ഈ ഗേറ്റ് y ഇത് z ഇത് w wട്ട്പുട്ട് f അതിനാൽ ഞങ്ങൾ ഇവിടെ ഊഹിക്കുന്നത് ഈ സർക്യൂട്ടിന്റെ ഉദാഹരണവുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം ഞങ്ങൾ ചിത്രീകരിക്കുമെന്ന് പറയട്ടെ ഞാൻ സമയത്തിന്റെ ആക്സസ് നോക്കുന്നുവെന്ന് പറയട്ടെ ഇത് എന്റെ സമയം ടി 0 ന് തുല്യമാണ് a b c എന്നിവയിൽ ചില സിഗ്നൽ സംക്രമണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ സിഗ്നൽ സംക്രമണം കൃത്യസമയത്ത് 0 ന് തുല്യമാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു b ൽ ഇത് 1 മുതൽ 0 അല്ലെങ്കിൽ 0 മുതൽ 1 വരെയാകാം അത് പ്രശ്നമല്ല ഞാൻ ഇപ്പോൾ 1 0 മുതൽ 1 വരെ കാണിക്കുന്നു B യിൽ അല്ലെങ്കിൽ 0 ൽ മറ്റൊരു സമയ സ്കെയിൽഇത് 0 6 കുറച്ച് കഴിഞ്ഞ് പറയട്ടെ അതിനാൽ c ൽ പരിവർത്തനം സംഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഇത് എല്ലായ്പ്പോഴും സംഭവിക്കാമെന്ന് നിങ്ങൾ കാണുന്നു കാരണം a b c മറ്റേതെങ്കിലും സർക്യൂട്ടിൽ നിന്നാണ് വരുന്നത് അതിനാൽ എല്ലാ ഇൻപുട്ടുകളും ഒരേ സമയം അവസ്ഥ മാറിക്കൊണ്ടിരിക്കും എന്നത് നിർബന്ധമല്ല അതിനാൽ ആദ്യത്തെ കാര്യം സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനത്തിൽ ഇൻപുട്ടുകൾ ട്രാൻസിറ്റ് ചെയ്യുമ്പോഴോ അവസ്ഥ മാറ്റുമ്പോഴോ എന്ന് പറഞ്ഞ് പ്രാഥമിക ഇൻപുട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അതിനാൽ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇത് a b c ഈ ഇൻപുട്ടുകൾ 0 0 0 6 എന്നിങ്ങനെ കാണിക്കുന്നു ഇൻപുട്ട് റൈറ്റിൽ സിഗ്നൽ ട്രാൻസിഷനുകൾ നടക്കുന്ന സമയം ഇത് സൂചിപ്പിക്കുന്നു ഞങ്ങൾ അനുമാനിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് ഞാൻ ഈ ഗേറ്റുകളുടെ ചില കാലതാമസങ്ങൾ അനുമാനിക്കുന്നു X കാലതാമസം 1 2 2 2 എന്നിവ കാണുക അതിനാൽ നമുക്ക് ഇത് കുറയ്ക്കാം ഈ ഡയഗ്രാമും ഇതിന്റെ കാലതാമസം 1 ഇത് 2 ഇത് 2 ഇത് 2 ആണ് ഈ ഡയഗ്രാമിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രമല്ല ഇന്റർകണക്ഷൻ വയറുകളുടെകാലതാമസം ചില യൂണിറ്റുകളിൽ ഇത് 0 15 0 1 പോലെ കാണിക്കുന്നു അതിനാൽ ഇതുപോലുള്ള കാലതാമസവും ഞാൻ കാണിക്കുന്നു അതിനാൽ ഈ കാലതാമസം 0 1 ഈ കാലതാമസം 0 15 ഇത് 0 1 ഇത് 0 2 ഇത് x 2 ഇത് 0 1 x 2 ഇത് 0 3 ഇത് 0 25 ഔട്ട്പുട് ലൈൻ കാലതാമസം 0 2 എന്നിവയാണ് അതിനാൽ ഇത് നിങ്ങളുടെ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് ടൂളിന്റെ ഇൻപുട്ട് ആയിരിക്കും അതിനാൽ ഇത് മാത്രമല്ല ഇൻപുട്ട് വരവ് സമയം 0 0 0 6 എന്നിവയും ഞാൻ വ്യക്തമാക്കുന്നു അതിനാൽ ഇൻപുട്ട് വരവ് സമയം ഞാൻ വ്യക്തമാക്കുന്നു ഗേറ്റ് കാലതാമസം ഞാൻ വ്യക്തമാക്കുന്നു വയർ കാലതാമസം ഞാൻ വ്യക്തമാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇതിനകം ചില പ്ലെയ്സ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ വയർ കാലതാമസത്തിന്റെ യഥാർത്ഥ കണക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയും അതിനാൽ പ്ലെയ്സ്മെന്റ് ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു നിങ്ങൾ ഈ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം നടത്തുന്നതിനാൽ ഇന്റർകണക്ഷൻ വയർ കാലതാമസം സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ നല്ല അളവുകളുണ്ട് ഇപ്പോൾ അടുത്ത ഘട്ടം ഇത് ഒരു നേരിട്ടുള്ള അസൈക്ലിക് ഗ്രാഫായി മാതൃകയാക്കുക എന്നതാണ് അതിനാൽ ഈ ഗ്രാഫിൽ ഓരോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരു ശീർഷവും ഓരോ ലോജിക് ഗേറ്റിനും ഒരു ശീർഷവും ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഒരു ഡമ്മി സോഴ്സ് നോഡ്അവതരിപ്പിക്കുന്നു അവിടെ നിന്ന് ഓരോ ഇൻപുട്ടുകളിലേക്കും ഒരു എഡ്ജ് ഉണ്ടാകും ലോജിക് ഗേറ്റ് ശീർഷകങ്ങൾ കാലതാമസത്തോടെ ലേബൽ ചെയ്യുകയും ദിശാസൂചിത അറ്റങ്ങൾ വയർ കാലതാമസം സൂചിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഈ ഉദാഹരണത്തിനായി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ ശ്രമിക്കാം അതിനാൽ ഇവിടെ നൽകുന്നത് a b c എന്നിവയാണ് അതിനാൽ ബ്രാക്കറ്റിന്റെ കാലതാമസം ഞാൻ സൂചിപ്പിക്കുന്നു അതിനാൽ പ്രാഥമിക ഇൻപുട്ടിൽ കാലതാമസങ്ങളൊന്നുമില്ല ഇവയാണ് പ്രാഥമിക ഇൻപുട്ട് ഞാൻ ഒരു ഡമ്മി വെർട്ടക്സ്അവതരിപ്പിച്ചു s മുതൽ ഓരോ പ്രാഥമിക ഇൻപുട്ടുകളിലേക്കും ഒരു എഡ്ജ് ഉണ്ടാകും അതിനാൽ കാലതാമസം 0 0 0 6 ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു കാരണം സിയിൽ 0 6 എത്തുന്ന സമയം കൂടാതെ b മുതൽ x വരെ ഒരു എഡ്ജ് ഉണ്ടാകും അതിന് 1 ഒരു കാലതാമസം ഉണ്ട് കൂടാതെ ഈ ഭാരം 0 1 ആണ് പിന്നെ നമുക്ക് y 2 ന്റെ കാലതാമസം ഉണ്ട് ഒരു ഭാരം പോലെ ഇതുപോലുള്ള ഒരു അഗ്രം ഉണ്ട് 0 1 ഇവിടെ നിന്ന് ഒരു എഡ്ജ് ഉണ്ട് കൂടാതെ 0 15 ഭാരം അപ്പോൾ സമാനമായി നമുക്ക് z ഉണ്ട് വീണ്ടും x ൽ നിന്ന് 2 കൊണ്ട് നമുക്ക് 2 3 എഡ്ജ് ഉണ്ട് സിയിൽ നിന്ന് നിങ്ങൾക്ക് 0 1 വരെ എഡ്ജ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് ഡബ്ല്യു ഒരു കാലതാമസം എന്നാൽ ഈ പരസ്പരബന്ധം 0 2 ആണ് അതിനാൽ നിങ്ങൾ നൽകിയ ഗേറ്റ് ലെവൽ നെറ്റ് ലിസ്റ്റിന്റെ ശരിയായ നിങ്ങളുടെ അസൈക്ലിക് ഗ്രാഫ്പ്രാതിനിധ്യമാണിത് അതിനാൽ നൽകിയിരിക്കുന്ന ഗേറ്റ് ലെവൽ നെറ്റ് ലിസ്റ്റിൽ നിന്നും എത്തിച്ചേരുന്ന സമയങ്ങളിൽ നിന്നും നിങ്ങൾ ഇതുപോലൊരു ഗ്രാഫ് സൃഷ്ടിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റിക് സമയ വിശകലനം നിങ്ങളുടെ ഉപകരണം ഈ ഗ്രാഫ് പ്രാതിനിധ്യത്തിൽ ശരിയായി പ്രവർത്തിക്കും അതിനാൽ നോക്കാം ഞാൻ വരച്ച അതേ ഗ്രാഫ് ഞങ്ങൾ ഈ ഗ്രാഫ് കാണിക്കുന്നു ഞങ്ങൾ ആദ്യം ഈ ഗ്രാഫ് നിർമ്മിക്കുന്നു ഇപ്പോൾ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചിലപ്പോൾ കണക്കുകൂട്ടുന്നു ആദ്യത്തേതിനെ യഥാർത്ഥ വരവ് സമയം എന്ന് വിളിക്കുന്നു ഒരു നോഡിന്റെ യഥാർത്ഥ വരവ് സമയം ഇത് യഥാർത്ഥത്തിൽ ഈ ചിഹ്നത്തിന്റേതാണ് ശരിയായി വരുന്നില്ല v v ക്യാപിറ്റൽ V യുടെതാണ് അതിനാൽ വി യുടെ യഥാർത്ഥ വരവ് സമയം സൂചിപ്പിക്കുന്ന ഒരു സെറ്റ് V യിൽ നൽകിയിരിക്കുന്ന ഒരു ചെറിയ നോഡിന്റെ വരവ് സമയം ക്ലോക്ക് സൈക്കിളിന്റെ ആരംഭം മുതൽ അളക്കുന്ന ഏറ്റവും പുതിയ പരിവർത്തന സമയമായി നിർവചിക്കപ്പെടുന്നു അതിനാൽ ഈ AAT കൺവെൻഷൻഎന്ന നിലയിൽ നോഡ് v ന്റെ ഔട്ട്പുട്ട് ഭാഗത്ത് വരവ് സമയം രേഖപ്പെടുത്തും നിങ്ങൾ ഈ ഉദാഹരണം വീണ്ടും നോക്കുന്നത് പോലെ ഈ ഉദാഹരണം വീണ്ടും നോക്കുക അതിനാൽ നമുക്ക് പറയാം നമുക്ക് ഈ എസ് നോക്കൂ ഇത് വരവ് പോലെയല്ല ഇതൊരു ഡമ്മി നോഡാണ് അതിനാൽ ഇവിടെ എത്തിച്ചേരാനുള്ള സമയം 0 ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഞാൻ ഇതുപോലെ കാണിക്കുന്നു എ 0 സമയത്ത് ഒരു പരിവർത്തനം നടക്കുന്നു 0 സമയത്ത് ബി നടക്കുന്നു 0 6 സമയത്ത് സി സംഭവിക്കുന്നു ഇപ്പോൾ ഇത് ഇപ്പോൾ നിലവിലുണ്ട് നമുക്ക് മറ്റുള്ളവ നോക്കാം X ന് x യുടെ കാലതാമസം 1 ആണ് സമയം 0 ആയ ഇൻപുട്ട് b യുടെ കാലതാമസം 0 1 ആണ് അതിനാൽ x ന്റെ 1ഔട്ട്പുട്ട് ലഭ്യമാകുന്ന 1 1 ന് ശേഷം മാത്രമേ ഇത് 1 പ്ലസ് 0 1 ആയിരിക്കും അതിനാൽ ഞാൻ ഇത് 1 1 ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇത് 1 1 ഉപയോഗിച്ച് നിരപ്പാക്കിയ ശേഷം നിങ്ങൾ ഈ y നോക്കുക അതിനാൽ 2 പാതകൾ ഉണ്ട് ഞങ്ങൾ രണ്ട് പാതകളും പരിഗണിക്കേണ്ടതുണ്ട് ആദ്യ പാതയിൽ ഇത് 2 പ്ലസ് 0 15 2 15 ആയിരിക്കും ഈ പാതയിൽ ഇത് 1 1 പ്ലസ് 0 1 പ്ലസ് 2 ആയിരിക്കും അതായത് ഇത് വലുതാണ് നിങ്ങൾ വലിയ നമ്പർ 3 2 രേഖപ്പെടുത്തുന്നു അതുപോലെ z ൽ 2 പാതകൾ ഉണ്ട് ഒന്ന് 0 6 പ്ലസ് 0 1 പ്ലസ് 2 2 7 മറ്റൊരു വശം 1 പ്ലസ് 1 0 3 2 അതായത് 3 3 4 വലുതാണ് അത് രേഖപ്പെടുത്തുക ഇവിടെ വരൂ വീണ്ടും 2 പാതകൾ ഉണ്ട് 3 2 പ്ലസ് 0 2 പ്ലസ് 2 അല്ലെങ്കിൽ 3 4 പ്ലസ് 0 25 പ്ലസ് 2 ഇത് വലുതാണ് ഇത് 5 65 ആയിരിക്കും ഔട്ട്പുട്ട് ഭാഗത്ത് അവസാനം 0 2 അത് 5 85 ആണ് അതിനാൽ പച്ചയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതെന്തും ഗേറ്റ് കാലതാമസവും വയർ കാലതാമസവും കണക്കിലെടുത്ത് എല്ലാ നോഡുകളിലും സിഗ്നൽ പരിവർത്തനത്തിന്റെ യഥാർത്ഥ വരവ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു സർക്യൂട്ട് റൈറ്റ് വഴി ഒരൊറ്റ പാസ് വഴി ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഈ പ്രക്രിയയുടെ സങ്കീർണ്ണത സർക്കിട്ടിന്റെ വലുപ്പത്തിലുള്ള ലീനിയറിനേക്കാൾ കൂടുതലല്ല അഗ്രങ്ങളുടെ എണ്ണവും അരികുകളുടെ എണ്ണവും ആയിരിക്കും വലിയ സർക്യൂട്ടുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് അതിനാൽ നിങ്ങൾ കൃത്യമായി എന്താണ് പ്രവർത്തിച്ചതെന്ന് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥ വരവ് സമയ മൂല്യങ്ങളെല്ലാം നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നു ഇവിടെ ഈ ഡയഗ്രാമിൽ ശീർഷങ്ങളുടെ ക്രമവും അരികുകളുടെ എണ്ണവും കണക്കാക്കാം കാരണം നമ്മൾ ഓരോ ശീർഷകവും കൃത്യമായി സന്ദർശിക്കേണ്ടതാണ് നമ്മൾ ഓരോ അറ്റവും കൂടി സഞ്ചരിക്കണം ഈ പ്രക്രിയയിൽ കൃത്യമായി ഒരിക്കൽ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് നിങ്ങൾ സഞ്ചരിക്കണം ഈ ലീനിയർ സമയ സങ്കീർണ്ണത കാരണം ദശലക്ഷക്കണക്കിന് ഗേറ്റുകൾ ഉൾക്കൊള്ളുന്ന വളരെ വലിയ സർക്യൂട്ടുകൾക്ക് സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനം വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും അതിനാൽ സമയ കാലതാമസം വളരെ വേഗത്തിൽ കണക്കാക്കുന്നതിനുള്ള ഒരു ആകർഷകമായ ഉപകരണമായി ഇത് മാറുന്നു അതിനാൽ ചില സമയ ലംഘനങ്ങൾ എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ അടുത്തത് ഒരിക്കൽ മടങ്ങുക അതിനാൽ ഇത് ഇത് ഈ യഥാർത്ഥ വരവ് സമയം യഥാർത്ഥത്തിൽ ഔ പചാരികമായി നിർവ്വചനം ഇങ്ങനെ പോകുന്നു അതിനാൽ ഒരു നോഡിന് v അതിനാൽ ഫാൻ ഇൻ നോഡുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ v ന്റെ ഫാൻ ഇൻ ആണെന്ന് പറയട്ടെ അതിനാൽ ഓരോന്നിനും അവയിൽ നിങ്ങൾ ആ നോഡിന്റെ യഥാർത്ഥ വരവ് സമയവും വയർ കാലതാമസവും ഞങ്ങൾ കൃത്യമായി ചെയ്തതിന്റെ പരമാവധി എടുക്കുന്നു നിങ്ങൾ AAT കണക്കുകൂട്ടുന്ന വിധത്തിൽ ഇപ്പോൾ ആവശ്യമായ എത്തിച്ചേരൽ സമയം വ്യത്യസ്തമാണ് ശരി ഇത് വീണ്ടും ഉണ്ടായിരിക്കണം ആവശ്യമായ വരവ് സമയം അർത്ഥമാക്കുന്നത് ഉപയോക്താവ് എന്റെ ഔട്ട്പുട്ടിന്റെ ആവശ്യമായ വരവ് സമയം വ്യക്തമാക്കിയതായി നിങ്ങൾ കാണുന്നു അതാണ് എനിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ കാലതാമസം എനിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ കാലതാമസം അതിനാൽ ആ മൂല്യത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്താനാകും മറ്റ് നോഡുകൾക്ക് ആവശ്യമായ വരവ് സമയം എന്താണെന്ന് നിങ്ങൾക്ക് ഊ ഹിക്കാൻ കഴിയും ഇപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ അടുത്തത് ഒരിക്കൽ മടങ്ങുക അതിനാൽ ഈ യഥാർത്ഥ വരവ് സമയം യഥാർത്ഥത്തിൽ ഔപചാരികമായി നിർവ്വചനം ഇങ്ങനെ പോകുന്നു അതിനാൽ ഒരു നോഡിന് v അതിനാൽ ഫാൻ ഇൻ നോഡുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ v ന്റെ ഫാൻ ഇൻ ആണെന്ന് പറയട്ടെ അതിനാൽ ഓരോന്നിനും അവയിൽ നിങ്ങൾ ആ നോഡിന്റെ യഥാർത്ഥ വരവ് സമയവും വയർ കാലതാമസവും ഞങ്ങൾ കൃത്യമായി ചെയ്തതിന്റെ പരമാവധി എടുക്കുന്നു നിങ്ങൾ AAT കണക്കുകൂട്ടുന്ന വിധത്തിൽ ഇപ്പോൾ ആവശ്യമായ എത്തിച്ചേരൽ സമയം വ്യത്യസ്തമാണ് ശരി ഇത് വീണ്ടും ഉണ്ടായിരിക്കണം ആവശ്യമായ വരവ് സമയം അർത്ഥമാക്കുന്നത് ഉപയോക്താവ് എന്റെ ഔട്ട്പുട്ടിന്റെ ആവശ്യമായ വരവ് സമയം വ്യക്തമാക്കിയതായി നിങ്ങൾ കാണുന്നു അതാണ് എനിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ കാലതാമസം എനിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ കാലതാമസം അതിനാൽ ആ മൂല്യത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്താനാകും മറ്റ് നോഡുകൾക്ക് ആവശ്യമായ വരവ് സമയം എന്താണെന്ന് നിങ്ങൾക്ക് ഊ ഹിക്കാൻ കഴിയും ഇപ്പോൾ AAT കണക്കാക്കുമ്പോൾ ഒരു കാര്യം ഇവിടെയുണ്ട് അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓരോ ശീർഷകത്തിനും ഞങ്ങൾ ഇൻപുട്ട് ഫാൻ ഇന്നുകൾ നോക്കുന്നു U u1 u2 u3 ഇതുപോലെ പറയട്ടെ അതിനാൽ നിങ്ങൾ ഇവിടെ AAT മൂല്യങ്ങളും കാലതാമസവും ഇത് പരമാവധി എടുക്കുന്നു നിങ്ങൾ പരമാവധി എടുക്കുന്നു പക്ഷേ നിങ്ങൾ ആവശ്യമായ വരവ് സമയം കണക്കാക്കുമ്പോൾ ഞങ്ങൾ വിപരീത വഴി ചെയ്യുന്നു ഓരോ ശീർഷകത്തിനും ഞങ്ങൾ മറ്റൊന്നിലേക്ക് നോക്കുന്നു ദിശ ഫാൻ ഔട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനാൽ ഒരു ഫാൻ ഔട്ട് 3 ഉണ്ട് അതിനെ u1 u2 u3 എന്ന് വിളിക്കുക ഇപ്പോൾ ഇവിടെയും ഈ നോഡുകൾക്ക് ആവശ്യമായ വരവ് സമയം എന്താണെന്ന് നിങ്ങൾ കാണുന്നു ഈ ലൈനുകളുടെ കാലതാമസം കുറയ്ക്കുക ഈ ഗേറ്റിന്റെ കാലതാമസം കുറയ്ക്കുക അതിനാൽ RAT മൂല്യം എന്തായിരിക്കും ഇവിടെ ഇവയിൽ ഏറ്റവും കുറഞ്ഞത് ആയിരിക്കും അതിനാൽ ആവശ്യമായ എത്തിച്ചേരൽ സമയം കണക്കാക്കാൻ നിങ്ങൾ കുറഞ്ഞത് കണക്കാക്കണം കാരണം ഏതാണ് ഏറ്റവും പഴയത് നിങ്ങൾ വി തയ്യാറാക്കണം എന്നാൽ ഇതിനായി നിങ്ങൾ പരമാവധി കാലതാമസം കണക്കാക്കുന്നു നിങ്ങൾ പരമാവധി എടുക്കേണ്ടതുണ്ട് ശരിയാണ് അതിനാൽ നിർവചനം വീണ്ടും നോക്കുമ്പോൾ അപ്സ്ട്രീം ഇൻപുട്ടിൽനിന്നുള്ള ഒന്നിലധികം പാതകളിൽ നിന്ന് നിർണ്ണയിക്കപ്പെട്ട AAT ൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഫാൻ ഇൻ ൽ വരുന്നവയാണ് എന്നാൽ ഫാൻ ഔട്ട് സൈഡിൽഒന്നിലധികം പാതകളിൽ നിന്ന് RAT നിർണ്ണയിക്കപ്പെടുന്നു ഇതിനെ ഡൌൺസ്ട്രീംഎന്ന് വിളിക്കുന്നു അതിനാൽ RAT ന്റെ എക്സ്പ്രഷൻ ഇത് മാത്രമാണ് ഔ ട്ട്പുട്ട് നോഡുകളുടെ RAT മൂല്യം നോഡിന്റെ കാലതാമസം കുറയ്ക്കുന്നു നിങ്ങൾ ആ അവകാശത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എടുക്കും അതിനാൽ നമുക്ക് പ്രവർത്തിക്കാൻ അതേ ഉദാഹരണം എടുക്കാം അതിനാൽ അവസാന നോഡിന്റെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള RAT മൂല്യം 5 5 ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഞാൻ ഈ ഡയഗ്രാമിൽ അനുമാനിക്കുന്നു നമുക്ക് അതിലേക്ക് വരാം RAT മൂല്യം 5 5 ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ ചുവപ്പിൽ ഞങ്ങൾ RAT അടയാളപ്പെടുത്തുന്നു ആവശ്യമായ എത്തിച്ചേരൽ സമയം അതിനാൽ മറ്റ് നോഡുകളുടെ RAT മൂല്യം എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം അതിനാൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് ഈ നോഡിന്റെ ഭാരം 0 2 ആണെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ ഔട്ട്പുറ്റിൽ ഈ സിഗ്നൽ സമയം 5 3 ന് തയ്യാറായിരിക്കണം ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോൾ കാണാം അതിനാൽ ഔട്ട്പുട്ടിൽ അത് 5 3 ആയിരുന്നു ഗേറ്റിന്റെ കാലതാമസം 2 അതിനാൽ ഇത് 5 പോയിന്റാണ് ഇത് 3 3 ഉം 0 2 ഉം ആണ് അതിനാൽ ഇവിടെ അത് 3 1 ൽ വരണം അതുപോലെ ഇവിടെ 5 3 മൈനസ് 2 എന്നത് 3 3 മൈനസ് 0 25 3 05 ആണ് അതിനാൽ ഇവിടെ അത് 3 05 ആയിരിക്കും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾ കണക്കുകൂട്ടൽ തുടരുക അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾ മൈനസ് 1 3 3 എന്നിവയും 1 ഉം മൈനസ് ആയി ഇത് 2 ആകും പക്ഷേ മറ്റൊരു വഴി ഉണ്ട് അതിനാൽ ഒരു പാത ചെറുതായ രണ്ടും നിങ്ങൾ കണക്കുകൂട്ടുന്നു അതിനാൽ നിങ്ങൾ ഇതുപോലെ കണക്കുകൂട്ടുക അതിനാൽ ഇത് 3 1 മൈനസ് 2 ആയിരിക്കും അത് 2 0 1 മൈനസ് 0 1 3 പോയിന്റ് മൈനസ് 2 ഇത് 1 1 മൈനസ് 1 മുതൽ 1 വരെ ആയിരിക്കും ഈ വശം 3 05 മൈനസ് 2 ഇത് 1 05 മൈനസ് 0 3 ഇത് 0 75 ആയിരിക്കും ഇത് ചെറുതാണ് അതിനാൽ ഇവിടെ മൂല്യം 0 75 ആയിരിക്കും ഇത് ഏറ്റവും ചെറിയ മിനിമം അതുപോലെ നിങ്ങൾ 3 2 മൈനസ് 2 മൈനസ് 0 15 മുന്നോട്ട് ഇത് 0 95 ആയി മാറും അതുപോലെ ഇത് മൈനസ് 0 35 ആയി മാറും ഒരു മൂല്യം ഇവിടെ നെഗറ്റീവ് ആയി മാറുന്നത് നിങ്ങൾ കാണുന്നു 0 75 മൈനസ് 1 മൈനസ് 0 1 ഇവിടെ അത് 0 95 ആയി മാറും ഒടുവിൽ ഈ ഡമ്മി നോഡിൽ അത് മൈനസ് 0 35 ആണ് ആവശ്യമായ വരവ് സമയങ്ങൾ ഇവയാണ് അതിനാൽ ഇപ്പോൾ RAT RAT മൈനസ് AAT എന്നിവയിൽ നിന്ന് AAT കുറച്ചുകൊണ്ട് മന്ദത കണക്കാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പരാമർശിക്കുന്നു അതിനാൽ ഈ മന്ദഗതിയിലുള്ള കണക്കുകൂട്ടൽ ഞാൻ ഇവിടെ കാണിക്കുന്നു ഇപ്പോൾ സ്ലൈഡിലേക്ക് മടങ്ങുമ്പോൾ മൂലധന ശൃംഖലയിൽ പെടുന്ന ഓരോ ശീർഷകത്തിനും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥ എത്തിച്ചേരൽ സമയം ഗ്രേറ്റർ ആയിരിക്കരുത് അതിനാൽ ഓരോ നോഡിനും സ്ലാക്ക് വ്യത്യാസം ഞങ്ങൾ കണക്കാക്കുന്നു അതിനാൽ സ്ലാക്ക് പോസിറ്റീവ് ആകാം സ്ലാക്ക് നെഗറ്റീവ് ആകാം സ്ലാക്ക് പോസിറ്റീവ് എന്നാൽ എല്ലാം ശരിയാണ് ഞങ്ങൾ നിയന്ത്രണം ലംഘിക്കുകയല്ല മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഒരു പ്രശ്നമുണ്ടെന്നാണ് അതിനാൽ നെഗറ്റീവ് സ്ലാക്ക് ഉള്ള എല്ലാ പാതകളെയും അവ നിർണായക പാതകളായി പരാമർശിക്കുന്നു നിർണായകമായ പാതകളായതിനാൽ ഞങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് അങ്ങനെ അത് ക്രമീകരിക്കാൻ ശ്രമിക്കണം അങ്ങനെ സ്ലാക്ക് വീണ്ടും 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആകും അതിനാൽ ഏത് പാതയിലാണ് നെഗറ്റീവ് സ്ലാക്ക് ഉള്ളത് ഏത് പാതയാണ് നിർണായകമെന്ന് തിരിച്ചറിയാനുള്ള ഞങ്ങളുടെ മാർഗ്ഗമാണിത് ദശലക്ഷക്കണക്കിന് പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നതിനാൽ ഇവ എന്റെ നിർണായക പാതകളാണെന്ന് ഡിസൈനർക്ക് പറയാൻ കഴിയില്ല അത് സാധ്യമല്ല അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ്വിശകലനം ഏത് പാതകൾ നിർണായകമാണെന്നും ഏതാണ് ശരിയല്ലെന്നും പറയാനുള്ള ഒരു ദ്രുത മാർഗം നിങ്ങൾക്ക് നൽകും അതിനാൽ ഈ ഡയഗ്രം യഥാർത്ഥത്തിൽ സംഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ കൃത്യമായി വർക്ക് ഔട്ട് ചെയ്തത് നീല നിറത്തിലുള്ള ഈ ഡയഗ്രാമിൽ ഞാൻ യഥാർത്ഥ വരവ് സമയം കാണിക്കുന്നു ഈ തവിട്ട് നിറത്തിൽ ഞാൻ ആവശ്യമായ വരവ് സമയം കാണിക്കുന്നു ചുവപ്പിൽ ഞാൻ സ്ലാക്കുകൾ കാണിക്കുന്നു ഇത് ഒരു AAT മൈനസ് ഈ RAT മൈനസ് AAT അതിനാൽ a c എന്നീ 2 നോഡുകൾ ഒഴികെ മറ്റെല്ലാ നോഡുകളിലും നെഗറ്റീവ് സ്ലാക്ക് ഉള്ളതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ എന്റെ സർക്യൂട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അങ്ങനെ ഈ നെഗറ്റീവ് സ്ലാക്കുകൾവീണ്ടും പോസിറ്റീവായിത്തീരും ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് പക്ഷേ എന്റെ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം എനിക്ക് ഇതുപോലൊരു ഫലം നൽകുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നിലവിലെ സമ്പ്രദായം സിഗ്നൽ പരിവർത്തനങ്ങളും കാലതാമസവും മാത്രമല്ല ഉയർച്ച സമയവും വീഴ്ചയും കാലതാമസത്തിനായി ഞങ്ങൾ പ്രത്യേകം നോക്കുന്നു കഴിഞ്ഞ പ്രഭാഷണ വേളയിൽ ഞാൻ പരാമർശിച്ചത് നിങ്ങൾ കണ്ടതിനാൽ ഒരു ഗേറ്റിന്റെ ഔ ട്ട്പുട്ടിൽ സിഗ്നൽ സംക്രമണം നടക്കുമ്പോഴെല്ലാം അത് ഒരു ലോഡ് കപ്പാസിറ്റി നയിക്കുന്നു അതിനാൽ ഇത് ഒന്നുകിൽ നെറ്റ്വർക്കിന്റെ പുൾ വഴി ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ പുൾ ഡൌൺ നെറ്റ്വർക്കിലൂടെഡിസ്ചാർജ് ചെയ്യുന്നു ഇപ്പോൾ പുൾ അപ്പ് ആൻഡ് പുൾ ഡൌൺ നെറ്റ്വർക്കിന്റെ പ്രതിരോധം വ്യത്യസ്തമായിരിക്കാം അതായത് വ്യത്യസ്ത ഉയർച്ച സമയവും വീഴ്ചയും അതിനാൽ ഒരു സിഗ്നൽ 0 മുതൽ 1 വരെയും 1 മുതൽ 0 വരെയുമുള്ള കാലതാമസം തുല്യമായിരിക്കണമെന്നില്ല അവയും വ്യത്യസ്തമാകാം അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ യാഥാർത്ഥ്യമായി പറയാൻ കഴിയും കാലതാമസത്തിന്റെ വിശകലനം വ്യത്യസ്ത സിഗ്നൽ പരിവർത്തനത്തെ പ്രത്യേകമായി പരിഗണിക്കണം കാരണം ഗേറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്ന രീതി ഗേറ്റുകൾ മാതൃകയാക്കി ആ കാലതാമസവും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഉയർച്ച കാലതാമസവും വീഴ്ച കാലതാമസവും നിങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു കാര്യമാണിത് ഞങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്ന ലളിതമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സിഗ്നൽ ഇന്റഗ്രേറ്റ് എക്സ്റ്റൻഷനുകളുംഉൾപ്പെടുത്താം അതിനർത്ഥം അടുത്ത വയർ സ്റ്റേറ്റ് മാറിയാൽ ചില വയറുകളിൽ കപ്ലിംഗ് ശേഷി ഉണ്ടാകും ആ വയറിന് ചില അധിക കാലതാമസങ്ങളും ഉണ്ടാകാം എന്നാണ് അതിനാൽ സാധാരണയായി നിങ്ങൾ അയൽപക്കംഎന്നർത്ഥം വരുന്ന ചില ജാലകങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഏത് വയറുകൾ അല്ലെങ്കിൽ ഏത് ലൈനുകൾ പരസ്പരം അടുക്കുന്നുവെന്ന് ട്രാക്കുചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അതിനാൽ ഒരു വരിയിലെ പരിവർത്തനം മറ്റൊരു വരിയിലെ കാലതാമസത്തെ ബാധിക്കും ആ മോഡലിംഗും ആവശ്യമാണ് ചിലപ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ്എന്നും അർത്ഥമാക്കുന്നത് വയർ ഗേറ്റ് കാലതാമസങ്ങളിൽ ഞാൻ ചില മൂല്യങ്ങൾ ശരിയാക്കുന്നില്ല എന്നാണ് എന്നാൽ ഞാൻ ഒരു ശ്രേണി നൽകുന്നു ഞാൻ അനുമാനിക്കുന്നത് ഇത് ഒരു ക്രമരഹിതമായ വേരിയബിളാണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻവഴി അവയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ സാധ്യമായ കാലതാമസവും ഈ അലസതയും ഞാൻ കണക്കാക്കുന്നു അതിനാൽ ഇത് ഒരു ശ്രേണി നൽകുന്നു യഥാർത്ഥത്തിൽ കൃത്യമായ മൂല്യമല്ല അത് എനിക്ക് ഒരു ശ്രേണി നൽകാൻ കഴിയും അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം വിശാലമായി പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് എന്നാൽ ഇത് കുറച്ച് പോരായ്മകൾ അനുഭവിക്കുന്നു ഒന്നാമതായി ഒരു ക്ലോക്ക് ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു കൂടാതെ ജോഡി രജിസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ തമ്മിലുള്ള കോമ്പിനേഷണൽ സർക്യൂട്ട് ബ്ലോക്കിൽ ഞങ്ങൾ സമയ വിശകലനം നടത്തുന്നു അതിനാൽ ഡിസൈനിൽ ഒരു ക്ലോക്ക് ആവശ്യമുള്ള ഡിസൈനിൽ അസിൻക്രണസ് സബ് സിസ്റ്റങ്ങൾഉണ്ടെങ്കിൽ അതിനാൽ ഞങ്ങൾക്ക് ഒരു സംസ്ഥാനം പ്രയോഗിക്കാൻ കഴിയില്ല രണ്ടാമതായി ഞങ്ങൾ എല്ലാ വഴികളും തുല്യമായി പരിഗണിക്കുന്നു അതിനർത്ഥം ഒരു പാതയെക്കുറിച്ചുള്ള നിരന്തരമായ സംവേദനക്ഷമതയുണ്ട് ഞങ്ങൾ പിന്നീട് നോക്കും അതിനാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാ വഴികളും പരിഗണിക്കാനും RAT AAT എന്നിവ കണക്കാക്കാനും ചില നിയന്ത്രണങ്ങൾ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്നു അവയിൽ ചിലത് ഫാന്റം നിയന്ത്രണങ്ങളായിരിക്കാം ഫാന്റം വെർച്വൽ ആണ് അത് ഒരിക്കലും സംഭവിക്കില്ല ഈ പാത വളരെ ദൈർഘ്യമേറിയതാണെന്ന് ഞങ്ങൾ കരുതുന്നു ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ പ്രായോഗികമായി എന്ത് സംഭവിച്ചാലും സിഗ്നൽ ഒരിക്കലും ആ പാതയിലേക്ക് ഒഴുകുകയില്ല അതിനാൽ നിങ്ങൾക്ക് ആ വഴികൾ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ നിന്ന് നമുക്ക് അവ ഉപേക്ഷിക്കാം അതിനാൽ ഒരുപക്ഷേ ഞങ്ങൾ നടത്തുന്ന ചില ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ശരിയായിരിക്കണമെന്നില്ല അത്തരം 2 തരം ഉണ്ട് ഒന്നിനെ ഒരിക്കലും സജീവമാക്കാത്ത തെറ്റായ പാതകൾ എന്ന് വിളിക്കുന്നു ചില പാതകൾ മൾട്ടി സൈക്കിൾപാതകളായിരിക്കാം അതായത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കിടയിൽ സിഗ്നൽ സംക്രമണങ്ങൾക്ക് 2 പിരീഡുകൾ 2 ക്ലോക്ക് പിരീഡുകൾ ഒന്നല്ല വേണ്ട വിധത്തിൽ ഡിസൈനർ മനപൂർവ്വം രൂപകൽപ്പന ചെയ്യുന്നു ഇവയെ ചിലപ്പോൾ മൾട്ടി സൈക്കിൾ പാതകൾഎന്ന് വിളിക്കുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ ഈ പിൻവലിക്കുന്ന ചില വശങ്ങളും അവ എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം